ഈ യൂണിറ്റിൽ നമ്മൾ ഒരു ലിസ്റ്റിലെ ഒരു വാല്യൂവിനായി സെർച്ച് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും എങ്ങനെയെന്ന് കാണാൻ പോകുന്നു ഒരു കമ്പ്യൂട്ടറിൽ മൂല്യങ്ങളുടെ ലിസ്റ്റ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അവലോകനം ചെയ്യാം ഒരു കൂട്ടം മൂല്യങ്ങൾ സംഭരിക്കുന്നതിന് രണ്ട് അടിസ്ഥാന വഴികളുണ്ട് അറേകളും ലിസ്റ്റുകളും ഇപ്പോൾ പ്രവർത്തനപരമായി അവ സമാനമായി തോന്നിയേക്കാം പക്ഷേ സങ്കീർണ്ണത സിദ്ധാന്ത ത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് കാര്യക്ഷമത വീക്ഷണകോണിൽ നിന്ന് ഡാറ്റ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നത് വ്യത്യാസമുണ്ടാക്കുന്നു അതിനാൽ അറേകളെയും ലിസ്റ്റുകളെയും കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങൾ നമുക്ക് അവലോകനം ചെയ്യാം ഒരു അറേ ഒരൊറ്റ മെമ്മറി ബ്ലോക്കാണ് നിങ്ങൾക്ക് ഒരു അറേ ഉണ്ടെങ്കിൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന തുടർച്ചയായ ഘടകങ്ങളുള്ള ഒന്നായി അതിനെ കരുതണം അതിനാൽ അറേക്ക് ഒരു വലിപ്പം n ഉണ്ടെങ്കിൽ A0 യെ A1 പിന്തുടരും A1 നെ A1 പിന്തുടരും അങ്ങനെ An 1 വരെ അതിനാൽ ഇപ്പോൾ നിർണായകമായ വസ്തുത ശ്രേണി എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് ചില മൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഉദാഹരണത്തിന് Ai അപ്പോൾ ഞാൻ Ai എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ ഓരോ യൂണിറ്റുകളുടെയും വലുപ്പത്തിനെ i കൊണ്ട് ഗുണിക്കണം ഇത് നമുക്ക് അറയുടെ തുടക്കമോ അവസാനമോ എന്നത് പരിഗണിക്കാതെ നിരയിലെ ഏത് സ്ഥാനവും ഏത് Aiയും ഒരേ സമയത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതിനു തുല്യമാണ് കാരണം ഏതു പൊസിഷനാണെങ്കിലും അതിന്റെ ഓഫ്സെറ്റ് കണക്കുകൂട്ടിയാൽ മതി നമുക്ക് അറേയുടെ ആരംഭസ്ഥാനം ഉണ്ട് i അറിയാം ആരംഭസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു കണക്കുകൂട്ടൽ മാത്രം നടത്തി നേരിട്ട് Ai സ്ഥാനം കണക്കാക്കാം ഇനി Ai Ai1 എന്നിവയ്ക്കിടയിൽ ഒരു പൊസിഷൻ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരു വലിയ സങ്കീർണ്ണമായ ജോലിയായി മാറും കാരണം ഇപ്പോൾ ഒരു മൂല്യം ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ഞാൻ ഈ മൂല്യങ്ങൾ എടുത്ത് താഴേക്ക് നീക്കണം അതായത് ഈ മൂല്യം ഓരോന്നും മാറ്റേണ്ടതുണ്ട് അതിനാൽ ഒരു ഘടകം ചേർക്കാൻ എടുക്കുന്ന സമയം അതിന്റെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ എനിക്ക് എല്ലാ ഘടകങ്ങളും ഒരു പൊസിഷൻ മാറ്റേണ്ടി വന്നേക്കും ഇതിന് അറേകളുടെ വലുപ്പത്തിന് ആനുപാതികമായി സമയം എടുത്തേക്കും അതിനാൽ ഇത് ഒരു ഓർഡർ n പ്രവർത്തനങ്ങളായിരിക്കും അതുപോലെ ഒരു ഘടകം നീക്കം ചെയ്യണമെങ്കിൽ അതിനു ശേഷമുള്ള ഘടകങ്ങളെല്ലാം ഒരു പൊസിഷൻ മുന്നിലേക്ക് മാറ്റണം അതിനാൽ എനിക്ക് ഒരു അറേ വിപുലീകരിക്കാനോ ചുരുക്കാനോ താൽപ്പര്യമുണ്ടെങ്കിൽ അത് ചെലവേറിയ പ്രവർത്തനമാണ് എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക ഘടകം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്റെ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ x അല്ലെങ്കിൽ y അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലളിതമായി ആക്സസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും മറുവശത്ത് ഒരു ലിസ്റ്റ് സാധാരണയായി ഒരു വഴക്കമുള്ള ഘടനയാണ് എലെമെന്റുകൾ ലിസ്റ്റിനോട് ചേർക്കുമ്പോൾ അവ പരസ്പരം നിശ്ചിത ബന്ധമില്ലാതെ മെമ്മറിയിൽ ചിതറിക്കിടക്കുന്നു അതിനാൽ സാധാരണയായി ഒരു ലിസ്റ്റിൽ മെമ്മറിയുടെ വിവിധ ഭാഗങ്ങളിൽ മൂല്യങ്ങൾ ഉണ്ടാകും ഓരോ മൂല്യവും അടുത്തതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് ആശയം അതിനാൽ ഇത് പട്ടികയുടെ തുടക്കമാണെന്ന് കരുതുക തുടർന്ന് ഇത് അടുത്ത എലെമെന്റിലേക്ക് വിരൽ ചൂണ്ടും ഇത് മൂന്നാമത്തെ എലെമെന്റിലേക്ക് വിരൽ ചൂണ്ടും ഇത് നാലാമത്തെ എലെമെന്റിലേക്ക് വിരൽ ചൂണ്ടും അതിനാൽ ഈ ലിങ്കിംഗ് ഘടന കാരണം സാധാരണയായി മിക്ക പ്രാഥമിക ഡാറ്റാസ്ട്രക്ചർ കോഴ്സ്കളിലും ലിസ്റ്റുകൾ പലപ്പോഴും ലിങ്ക്ഡ് ലിസ്റ്റായി പരാമർശിക്കപ്പെടുന്നു ലിങ്ക്ഡ് ലിസ്റ്റ് അത്തരമൊരു ഫ്ലെക്സിബിൾ സ്റ്റെപ്പ് സ്ട്രക്ചർ നടപ്പിലാക്കുന്നതിനുള്ള ഒരു വ്യക്തമായ മാർഗ്ഗം മാത്രമാണ് ഇത്തരം ലിസ്റ്റുകളിൽ ഒരു പ്രത്യേക ഘടകം ഉദാഹരണത്തിന് l2 എവിടെയാണ് എന്ന് പറയണമെങ്കിൽ ബുദ്ധിമുട്ടാണ് l2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ലിസ്റ്റിന്റെ ആരംഭമായ l0 യിൽ തുടങ്ങി l0 l1 l2 എന്നിങ്ങനെ യാത്രചെയ്തു l2 വിൽ എത്തിച്ചേരണം l0 എവിടെയാണെന്ന് നമുക്കറിയാം കാരണം ലിസ്റ്റിന്റെ പേര് l0 ലേക്ക് വിരൽ ചൂണ്ടും അതിനാൽ l2 എത്തുന്നതുവരെ ഞാൻ ഈ അടയാളങ്ങൾ പിന്തുടരേണ്ടതുണ്ട് അതിനാൽ പൊതുവേ എനിക്ക് i യിലേക്ക് പോകണമെങ്കിൽ ഞാൻ A0 ൽ ആരംഭിക്കണം തുടർന്ന് A1 A2 എന്നിങ്ങനെ ലിങ്ക് പിന്തുടരണം ഇതിന് i ഘട്ടങ്ങൾ എടുക്കും അതായത് എനിക്ക് പോകേണ്ടത് ലിസ്റ്റിന്റെ കൂടുതൽ താഴേക്കാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും അതിനാൽ Ai ആക്സസ് ചെയ്യുന്നത് i യ്ക്ക് ആനുപാതികമാണ് പൊതുവേ എനിക്ക് i എന്ന പരിധി ആക്സസ് ചെയ്യണമെങ്കിൽ അത് linear order ആണ് മറുവശത്ത് നോഡുകൾ കൂട്ടിചേർക്കുന്നതും ഒഴിവാക്കുന്നതും താരതമ്യേന എളുപ്പമാണ് ഞാൻ എവിടെയാണെന്ന് എനിക്കറിയാമെങ്കിൽ l2 നും l3 നും ഇടയിൽ എന്തെങ്കിലും ചേർക്കണമെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഞാൻ ആദ്യം ഒരു പുതിയ നോഡ് നിർമ്മിക്കും അതിനുശേഷം പ്ലംബിംഗ് എന്ന് വിളിക്കുന്ന ഒരു പ്രവർത്തിചെയ്യും ആദ്യം ഞാൻ ഈ ലിങ്ക് നീക്കംചെയ്യും പകരം l2 ൽ നിന്ന് പുതിയ നോഡിലേക്കും പുതിയ നോഡിൽ നിന്ന് l3 ലേക്കും ഒരു ലിങ്ക് ചേർക്കും ഏത് ലിങ്കുകൾ ചേർക്കണമെന്ന് എനിക്കറിയാം കാരണം ഇത് ഞാൻ ഇപ്പോൾ സൃഷ്ടിച്ച ഒരു നോഡാണ് അതിനാൽ അതിന്റെ ലൊക്കേഷനും l2 l3 ലേക്ക് പോയിന്റ് ചെയ്യുന്നെന്നും എനിക്കറിയാം എനിക്ക് ഈ വിവരങ്ങൾ പുതിയ നോഡിലേക്ക് കൈമാറാൻ കഴിയും അതുവഴി ഈ ലിങ്കുകൾ സ്ഥാപിക്കാനാകും ഒരു നോഡ് ഒഴിവാക്കുമ്പോഴും സമാനമായ ഒരു കാര്യം സംഭവിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് ഈ നോഡ് ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഈ ലിങ്ക് എടുത്ത് അതിനെ മറികടന്ന് നേരിട്ട് പോകുക എന്നതാണ് അതിനാൽ ഈ ലിങ്കുകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാറ്റുന്നതിലൂടെ ഒരു ലിസ്റ്റിലെ ഏത് ഘട്ടത്തിലും നമുക്ക് നോഡുകൾ ചേർക്കാനോ ഇല്ലാതാക്കാനോ കഴിയും പക്ഷേ അതിനാവശ്യമായ സ്ഥാനം കണ്ടെത്തുന്നതിന് എനിക്ക് തുടക്കത്തിൽ ആരംഭിച്ച് അവസാനം വരെ പോകേണ്ടതുണ്ട് ഇതിന് ലീനിയർ സമയം ആവശ്യമാണ് അതിനാൽ ഈ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സ്വാധീനിക്കുന്നു നമുക്ക് കുറെ ഘടകങ്ങൾ ഉണ്ടെന്നും അതിലെ i j എന്നീ സ്ഥാനങ്ങളിലുള്ള ഘടകങ്ങൾ പരസ്പരം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക ഒരു അറേ Aയിലെ i j എന്നീ സ്ഥാനങ്ങൾ എനിക്കറിയാമെങ്കിൽ Ai യെയും Aj യും പരസ്പരം മാറ്റുന്നതിന് ഒരു സ്ഥിരമായ സമയം മതി ഇത് കൃത്യമായി x y എന്നിവ മാറ്റുന്നത് പോലെയാണ് പക്ഷേ ഇതൊരു ലിസ്റ്റാണെങ്കിൽ i യുടെ സ്ഥാനം ആദ്യം കണ്ടെത്തണം പിന്നെ j യുടെ സ്ഥാനം കണ്ടെത്തണം ഈ രണ്ട് കാര്യങ്ങളും കണ്ടെത്തി തുടർന്ന് അവ പരസ്പരം മാറ്റണം അതിനാൽ കൈമാറ്റം ചെയ്യാനുള്ള സ്ഥാനങ്ങൾ കണ്ടെത്താൻ എനിക്ക് ഒരു ലീനിയർ സമയം എടുക്കും മറുവശത്ത് നമ്മൾ ഇതിനകം കണ്ടതുപോലെ ഒരു ലിസ്റ്റിന്റെ മധ്യത്തിൽ നിന്ന് ഒരു ഘടകം ഇല്ലാതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലേക്ക് ഒരു ഘടകം ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിനകം i യിൽ ആണെങ്കിൽ ഒരു സ്ഥിരമായ സമയം മാത്രം മതിയാകും ഒരു ലിസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ i യിൽ എത്തിയാൽ സ്ഥിരമായ സമയത്ത് ഉൾപ്പെടുത്തലോ ഒഴിവാക്കാലോ ചെയ്യാം പക്ഷേ ആ സ്ഥാനത്ത് അറേയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഘടകം ചേർക്കാനോ അറേ ചുരുക്കാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ഘടകങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ മാറ്റേണ്ടതുണ്ട് ഇതിന് ലീനിയർ സമയമെടുക്കും അതിനാൽ ചിലപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെ ബാധിക്കും 1 മുതൽ n അല്ലെങ്കിൽ 0 മുതൽ n 1 വരെയുള്ള ഘടകങ്ങളുടെ ക്രമത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഡാറ്റസ്ട്രക്ച്ചറിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു അൽഗോരിതം മറ്റൊന്നിൽ പ്രവർത്തിക്കില്ല ഇതിന് ഉദാഹരണമായി ബൈനറി സെർച്ച് അറേകളിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ലിസ്റ്റിൽ പ്രവർത്തിക്കുന്നില്ല കാരണം അറേയിലെ ചില ഇൻഡെക്സ് i കളിലെ ഘടകങ്ങൾ വീണ്ടും വീണ്ടും എടുക്കേണ്ടിവരും